ഇതുവരെ നമ്മൾ പഠിച്ചുകഴിഞ്ഞത് ഒന്ന് കൂടെ നമുക്ക് അവലോകനം ചെയ്യാം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതൊക്കെ പഴയ ക്വാണ്ടം തിയറി അനുസരിച്ചുള്ള കാര്യങ്ങളായിരുന്നു അവിടെ നമ്മൾ പ്രധാനമായി ചെയ്തത് ഒരു ക്വാണ്ടം സിസ്റ്റത്തിന്റെ എനർജി ലെവലുകൾ കണ്ടുപിടിച്ചു ഇവിടെ ക്വാണ്ടം സിസ്റ്റം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂഷ്മമായ അഥവാ ചെറിയ മൈക്രോസ്കോപിക് സിസ്റ്റം ആണ് ഇതിന്റെ ഭാഗമായി നമ്മൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്' ഹാർമോണിക് ഓസ്സില്ലെറ്റർ ആറ്റം ഇവയെകുറിച്ചെല്ലാം ചർച്ച ചെയ്തു ഇവിടെ നമ്മൾ ചെയ്തത് ക്വാണ്ടം കണ്ടീഷൻ ഉപയോഗിച്ച് ഒരു പീരീഡിലുള്ള ആക്ഷൻ A കാണുകയാണ് അതായത് ഇവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന നിലയിലാണ് dq എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും എനർജി അല്ലെങ്കിൽ എനർജി വ്യത്യാസം ലഭിക്കും അങ്ങനെ ഈ ഫോർമുല എനർജി അല്ലെങ്കിൽ രണ്ടു ലെവലുകൾ തമ്മിലുള്ള എനർജി വ്യത്യാസം കാണാൻ ഉതകുന്നതാണ് അങ്ങനെ എനർജി വ്യത്യാസം കിട്ടി കഴിയുമ്പോൾ രണ്ടു ലെവലുകൾ m n ആണെന്നിരിക്കട്ടെ ഇതിൽ m n അങ്ങനെയെങ്കിൽ അതായത് നമുക്ക് റേഡിയേഷന്റെ ഫ്രീക്വൻസി കാണാൻ സാധിക്കുന്നു നമ്മൾ ചെയ്ത മറ്റൊരു കാര്യം ഈ റേഡിയേഷന്റെ ഇന്റെൻസിറ്റി കാണുക എന്നുള്ളതാണ് ഇതിനു നമുക്ക് പ്രത്യേക തിയറി ഒന്നും തന്നെ ഇല്ല നമ്മുടെ അറിവിലുള്ള ഒരേ ഒരു കാര്യം മാക്സ്വെൽ തിയറി അനുസരിച്ചുള്ള ഇലക്ട്രോ മാഗ്നെറ്റിക് വേവ്സിന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള വളരെ പരിചിതമായ സിദ്ധാന്തമാണ് ഇന്റെന്സിറ്റിയുമായി ബന്ധപ്പെട്ട് ആകെ നമുക്കറിയാവുന്നത് ഐൻസ്റ്റൈൻ തിയറി ഓഫ് A B കോയെഫിഷ്യന്റ് ആണ് അതായത് ക്വാണ്ടം തിയറിയിൽ മാറ്റർ റേഡിയേഷൻ പ്രതിപ്രവർത്തനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരേ ഒരു തിയറി ഐൻസ്റ്റൈൻ മുന്നോട്ടുവച്ച സ്റ്റിമുലേറ്റഡ് എമിഷനെകുറിച്ചും സ്പോൻറെനിയസ് എമിഷനെക്കുറിച്ചുമുള്ള സിദ്ധാന്തങ്ങളാണ് ഇതിൽ നമുക്കറിയാവുന്നത് ഇവിടെ A B എന്നിങ്ങനെ രണ്ട് കോയെഫിഷ്യന്റ് ഉണ്ടെന്നാണ് എന്നാൽ ഇത് കണ്ടുപിടിക്കാൻ നമുക്കറിയില്ല ഇതുവരെ നമ്മൾ കണ്ട തിയറിയിലൂടെ നമുക്ക് ധാരാളം പ്രധാനപ്പെട്ട വസ്തുതകൾ കിട്ടിയിട്ടുണ്ട് ഉദാഹരണമായി ആറ്റത്തിന്റെ ഘടന പീരിയോഡിക് ടേബിൾ അറ്റോമിക സ്പെക്ട്രംഭാഗികമായി atomic spectrum partially സ്പെക്ട്രൽ ലൈൻസിന്റെ സ്ഥാനം നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു പലതും നമുക്ക് ഇനിയും അറിയാനുണ്ട് അതുകൊണ്ടുതന്നെ ഇതുവരെയുള്ള തിയറികൾ പൂർണമാണെന്നു പറയാൻ കഴിയില്ല ഉദാഹരണമായി ഇന്റെൻസിറ്റി കാണുന്ന വിധം മൈക്രോസ്കോപിക് സ്ട്രക്ച്ചർ അതായത് ക്വാണ്ടം സ്ട്രക്ച്ചർ ഇതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു ഇതിനായി ഇതര സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെടുത്തേണ്ടതുണ്ട് പ്രധാനമായും നിങ്ങൾക്കെല്ലാം പരിചിതമായ ക്ലാസിക്കൽ തിയറിയുമായി അവിടെയാണ് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ വരുന്നത് അതിനാൽ ഇന്ന് നമ്മൾ ചർച്ചചെയ്യാൻ പോകുന്നത് ക്വാണ്ടം തലത്തിൽ എന്ത് സംഭവിക്കുന്നുവെന്നതിനെക്കുറിച്ച് ഒരു സൂചന നൽകുന്ന കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ ആണ് ക്വാണ്ടം സിദ്ധാന്തം ക്ലാസിക്കൽ സിദ്ധാന്തവുമായി എങ്ങനെ ചേർന്നുപോകുന്നുവെന്നും അതിന് കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എങ്ങനെ സഹായകരമായി എന്നും നിങ്ങൾക്ക് ഇവിടെ മനസിലാക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് കാരണം ക്ലാസിക്കൽ തിയറി എന്താണെന്നും ക്വാണ്ടം തിയറി എങ്ങനെ ക്ലാസിക്കൽ റിസൾട്ട് കൂടി നൽകുന്നത് എന്നും മനസിലാക്കിയാൽ നമ്മുടെ സിദ്ധാന്തം ക്ലാസിക്കൽ തിയറിയിൽ നിന്നും ക്വാണ്ടം മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നെന്നു പഠിക്കാൻ പറ്റും അതുകൊണ്ടുതന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ഞാൻ ഈ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിലും ഇതിനെകുറിച്ച് തന്നെയായിരിക്കും ചർച്ച ചെയ്യുന്നത് ക്ലാസിക്കൽ തിയറി എങ്ങനെ വീക്ഷിക്കണമെന്നും അതിലൂടെ ക്വാണ്ടം തിയറിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസിലാക്കാനും നമുക്ക് ശ്രമിക്കാം കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്താണെന്നറിയാൻ നമുക്ക് ആദ്യം തന്നെ ഒരു ഒബ്സെർവഷനിൽ തുടങ്ങാം ഈ ഒബ്സെർവഷനിൽ നമ്മൾ സങ്കൽപ്പിക്കുന്നത് ക്വാണ്ടം നമ്പർ വളരെ വലുതായതിനാൽ ഉത്സർജിക്കപ്പെടുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി ക്ലാസിക്കൽ റേഡിയേഷൻ ഫ്രീക്വൻസി തന്നെ ആയിരിക്കുമെന്നാണ് ഓസില്ലേഷൻ നിലുള്ള അഥവാ ദോലനം ചെയ്യുന്ന ഒരു ചാർജിൽനിന്നും പുറത്തേക്കുവരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി ക്ലാസിക്കൽ തിയറി അനുസരിച്ച് അതിന്റെ പീരിയോഡിക് ചലനത്തിന്റെ ഫ്രീക്വൻസിയ്ക്കു തുല്യമായിരിക്കുമെന്ന കാര്യം ഞാനിവിടെ ഒന്നുകൂടെ ഓർമിപ്പിക്കട്ടെ പീരിയോഡിക് മോഷൻ എന്ന് പറയാൻ കാരണം എല്ലായ്പോഴും ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ സിംപിൾ ഹാർമോണിക് മോഷൻ ആവണമെന്നില്ല ഏതു പീരിയോഡിക് മോഷനോ അതിന്റെ ആവർത്തനമോ ആവാം ക്ലാസിക്കൽ റിസൽറ്റിനോട് ബന്ധപ്പെടുത്തി എഴുതിയതെല്ലാം ക്ലാസിക്കൽ തിയറിയിൽ നിന്നും ലഭിച്ചതാണ് അപ്പോൾ നമ്മൾ കണ്ട ഒബ്സർവേഷൻ എന്താണ് ക്വാണ്ടം നമ്പർ വളരെ കൂടുമ്പോൾ ക്വാണ്ടം പ്രതിഭാസം കാരണം ഉണ്ടാകുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി അതായത് ഇലക്ട്രോൺ ഉയർന്ന എനർജി ലെവലിൽ നിന്നും താഴേക്ക് പതിക്കുമ്പോൾ ഉത്സർജിക്കപ്പെടുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി ക്ലാസിക്കൽ മോഷൻ അനുസരിച്ചുള്ള ഫ്രീക്വൻസിയ്ക്ക് തുല്യമാണ് ഇതെങ്ങനെയാണെന്നു നോക്കാം ഇവിടെ ഞാൻ 'പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്' അഥവാ ഒരു അപരിമിത പൊട്ടൻഷ്യൽ ഗർത്തം എന്ന ഉദാഹരണം എടുക്കാം ഇവിടെ പാർട്ടിക്കിൾ എന്നത് ഒരു ചാർജുള്ള പാർട്ടിക്കിൾ എന്നാണെന്നു വ്യക്തമാണല്ലോ കാരണം ചാർജുള്ള പാർട്ടിക്കിൾ മാത്രമേ ആക്സിലറേറ്റ് ചെയ്യപ്പെടുമ്പോൾ റേഡിയേറ്റ് ചെയ്യുകയുള്ളൂ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എടുത്താൽ അതിന്റെ പൊട്ടൻഷ്യൽ ഗർത്തത്തിന്റെ ലെങ്ത് L ആണെങ്കിൽ എനർജി ലെവൽ ആയിരിക്കും ഇത്തരം പാർട്ടിക്കിൾ ഉയർന്ന എനർജി ലെവലിൽ നിന്നും താഴ്ന്ന എനർജി ലെവലിലേക്ക് പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഈ പൊട്ടൻഷ്യൽ ഗർത്തത്തിലുള്ള കണിക ഉയർന്ന ലെവൽ n ൽ നിന്നും താഴ്ന്ന എനർജി ലെവൽ n 𝞃 വിലേക്ക് പതിക്കുന്നു എന്ന് കരുതുക ഇവിടെ n 𝞃 ഇവ പൂർണസംഖ്യകൾ ആണ് n എനർജി ലെവലിൽ നിന്നും n 𝞃 എനർജി ലെവലിലേക്ക് ഇലക്ട്രോണിന്റെ ചാട്ടം ഉണ്ടാകുമ്പോൾ ബോർ തിയറി അനുസരിച്ച് റേഡിയേഷൻ ഉത്സർജിക്കപ്പെടുന്നു ഈ റേഡിയേഷന്റെ ഫ്രീക്വൻസി ആയിരിക്കും അതായത് h ക്യാൻസൽ ചെയ്താൽ ഇവിടെ n →∞ എന്ന ലിമിറ്റ് എടുത്താൽ അതായത് ക്വാണ്ടം നമ്പർ n വളരെ വലുത് എന്നും 𝞃 n എന്നുമെടുത്താൽ അതായത് ഇതിനർത്ഥം n വളരെ വലുതും ട്രാൻസിഷൻ നടക്കുന്നത് n ൽ നിന്നും n 1 അല്ലെങ്കിൽ n 2 തുടങ്ങിയ ലെവലിലേക്കുമാണെന്നാണ് അങ്ങനെയെങ്കിൽ കാരണം n നെ അപേക്ഷിച്ച് 𝞃 വളരെ ചെറുതായതുകൊണ്ടു ഞാനിവിടെ 𝞃2 ഒഴിവാക്കി ഇതിൽ 2 ക്യാൻസൽ ചെയ്താൽ അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് nh 4mL2 എന്നത് പീരിയോഡിക് മോഷന്റെ ക്ലാസിക്കൽ തിയറി അനുസരിച്ചുള്ള ഫ്രീക്വൻസി തന്നെ ആണെന്ന് കാണിക്കുകയാണ് ഇതനുസരിച്ച് എഴുതുകയാണെങ്കിൽ n →∞ എന്ന ലിമിറ്റിൽ പാർട്ടിക്കിളിൽ നിന്നും ഉത്സർജ്ജിക്കുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസി classical എന്നെഴുതാം ഇവിടെ 𝞃 1 2 3മുതലായവ ആയതുകൊണ്ട് ഇതനുസരിച്ച് റേഡിയേഷന് classical അല്ലെങ്കിൽ അതിന്റെ ഉയർന്ന ഹാർമോണിക്സ് ലുള്ള ഫ്രീക്വൻസി ആയിരിക്കും ഇത് ശരിയാണോ എന്ന് നോക്കാം ഇവിടെ എടുത്തിരിക്കുന്ന ഈ പൊട്ടൻഷ്യൽ ഗർത്തത്തിലുള്ള കണികയ്ക്കു നേരത്തെ കാണിച്ചതുപോലെ ഈ എനർജി തികച്ചും കൈനെറ്റിക് എനർജി 12mv2ആയിരിക്കും അതായത് ഇതിൽ 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് മാറ്റി എഴുതിയാൽ അഥവാ v അഥവാ സ്പീഡ് ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് മോഷൻ അഥവാ 0 യ്ക്കും L നും ഇടയിൽ ഇടത്തുനിന്നും വലത്തോട്ടേകും തിരിച്ചും ഒരു പ്രാവശ്യം സഞ്ചരിക്കാനുള്ള സമയം അതായത് ഒരു ടൈം പീരിയഡിൽ ആകെ സഞ്ചരിക്കുന്ന ദൂരം 2L സ്പീഡ് v hn2mL ഫ്രീക്വൻസി 𝞶 1T v2L കാരണം പീരീഡ് T2Lv ആണല്ലോ ഇതിൽ നിന്നും 𝞶 hn4mL2 ഇതാണ് ക്ലാസിക്കൽ ഫ്രീക്വൻസി അതായത് ക്ലാസിക്കൽ ഫ്രീക്വൻസി നേരത്ത നമ്മൾ കണ്ടു ക്വാണ്ടം മെക്കാനിക്കൽ ഫ്രീക്വൻസി ആണെന്ന് അതിനർത്ഥം ക്വാണ്ടം സിസ്റ്റം വളരെ വലിയ ക്വാണ്ടം നമ്പർ n ആയിട്ടുള്ള ലെവലിൽ നിന്നും റേഡിയേറ്റ് ചെയ്യുമ്പോൾ അത് ക്ലാസിക്കൽ ഫ്രീക്വൻസിയിലോ അതിന്റെ ഹാർമോണിക്സിലോ ആയിരിക്കും റേഡിയേഷൻ ഉത്സർജ്ജിക്കുന്നത് ഈ റിസൾട്ടിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഫ്യൂരിയർ സീരീസ് ഉപയോഗിച്ച് വിശദമായി ചർച്ച ചെയ്യാം അടുത്തതായി നമുക്ക് മറ്റൊരു ഉദാഹരണമെടുക്കാം ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റത്തിന്റെ nth ലെവലിന്റെ എനർജി ഇവിടെ ഞാൻ Z കാണിച്ചിരിക്കുന്നതുകൊണ്ട് ഞാനിതിനെ ന്യൂക്ലിയർ ചാർജ് Ze ആയിട്ടുള്ള ഹൈഡ്രജന് സമാനമായ ആറ്റം എന്നെടുക്കാം ഇങ്ങനെയുള്ള ഒരു ആറ്റത്തിൽ n ലെവലിൽ നിന്നും n 𝞃 ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ പുറത്തേക്കു വരുന്ന റേഡിയേഷന്റെ എനർജി ഇവിടെ m എന്നത് ഇലക്ട്രോൺ മാസ്സ് ആണ് ഇനിയിവിടെ n →∞ 𝞃 n എന്ന കണ്ടീഷൻ എടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയെഴുതാം

ഇത് നമ്മൾ classicalh ആയി എടുക്കുകയാണ് അതായത് n ൽ നിന്നും n τ യിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഫ്രീക്വൻസി 𝞶 എന്നത് classical ആയി എടുത്തിരിക്കുകയാണ് classical എന്തെന്ന് കാണുന്നത് നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനമായി തരികയാണ് ഇതിനായി നിങ്ങൾ എനർജി എടുക്കണം ഇതിൽ നിന്നും nth ഓർബിറ്റലിലുള്ള ഇലക്ട്രോണിന്റെ സ്പീഡ് vn ലഭിക്കും vn കിട്ടിക്കഴിഞ്ഞാൽ mvrnh2π എന്ന ബോർ കണ്ടിഷൻ ഉപയോഗിച്ച് rn കാണാം vnrn2π കണ്ടാൽ classical ലഭിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട രണ്ടു ഉദാഹരണങ്ങളിൽ നിന്നും മനസിലാക്കിയത് എന്താണ് nth ലെവലിൽ നിന്നും n τth ലെവലിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ n വളരെ കൂടുതലാണെങ്കിൽ എമിഷൻ നടക്കുന്ന ഫ്രീക്വൻസി 𝞶 എന്നത് classical ലിന്റെ ഹാർമോണിക്സ് ആയിരിക്കും ഈ നിരീക്ഷണം തികച്ചും യാദൃശ്ചികം മാത്രമാണോ അതോ അതിലും ആഴത്തിൽ എന്തെങ്കിലും മനസിലാക്കേണ്ടതുണ്ടോ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം ഇപ്പോൾ കണ്ട രണ്ടു സിസ്റ്റത്തിന് മാത്രം യാദൃശ്ചികമായി വന്നതാണോ ഈ നിരീക്ഷണം അതോ ഇത് പൊതുവായി എല്ലാ സിസ്റ്റത്തിനും ശരിയാണോ എന്നാണ് ഇതിനുള്ള ഉത്തരം ഇത് പൊതുവായി എടുക്കാവുന്ന നിരീക്ഷണമാണെന്നാണ് ഇത് ലഭിക്കുന്നത് ക്ലാസിയ്ക്കൽ തിയറിയിൽ നിന്നാണ് ഇതനുസരിച്ച് നമ്മൾ ഒരു സിസ്റ്റം സങ്കല്പിച്ചാൽ ഇവിടെ ഞാൻ രണ്ടു സിസ്റ്റം എടുത്തിരുന്നു ഒന്ന് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് പിന്നെ ഇലക്ട്രോൺ ഒരു സർക്യൂലർ ഓർബിറ്റലിൽ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആറ്റം ഇതിനോടൊപ്പം നമുക്ക് ഒരു ഹാർമോണിക് ഓസിലേറ്റർ കൂടി എടുക്കാം ഇവിടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ സിസ്റ്റത്തിലെല്ലാം തന്നെ ഓസിലേഷൻ ഫ്രീക്വൻസി എന്നത് ∂E∂A ആണെന്നാണ് ഇവിടെ E എന്നത് എനർജിയും A എന്നത് ആക്ഷനുമാണ് ഇതെന്താണെന്ന് ഞാൻ ഒന്നുകൂടെ വിശദമാക്കാം ഞാനിതിവിടെ ഉദാഹരണങ്ങളിലൂടെ മാത്രമാണ് വിശദമാക്കാൻ പോകുന്നത് ഇത് തെളിവോടുകൂടി വിശദമാക്കാനായി ക്ലാസിക്കൽ മെക്കാനിക്സ് കുറച്ചുകൂടി അഗാധമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പക്ഷെ ഈ കോഴ്സിനുമപ്പുറത്തേക്കു പോകുമെന്നതിനാൽ ഞാനിപ്പോൾ അതിനു തുനിയുന്നില്ല ഞാനതുകൊണ്ട് കുറച്ചു എക്സാംപിൾ മുഖേന ചെയ്യുകയാണ് ഇവിടെ ഞാൻ E എനർജിയും A ആക്ഷനുമായുള്ള ഒരു സിസ്റ്റം എടുക്കയാണ് ആക്ഷൻ എന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമിപ്പിച്ചേക്കാം ഹാർമോണിക് ഓസിലേഷനിലുള്ള ഒരു പാർട്ടിക്കിൾ എടുത്താൽ ആക്ഷൻ എന്നത് ആയിരിക്കും പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എടുത്താൽ ആക്ഷൻ സർക്യൂലർ ഓർബിറ്റലിൽ ചലിക്കുന്ന ഒരു പാർട്ടിക്കിളിന് ആംഗുലാർ മൊമെന്റം ഉപയോഗിച്ചാണ് ആക്ഷൻ കാണുന്നത് ഇവിടെ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിയും ആക്ഷൻ എന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നും അത് ഒരു ഓർബിറ്റിനു അനുബന്ധമായുള്ള നമ്പർ മാത്രമാണ് എന്നും എനർജി എന്നത് ആക്ഷൻ മറ്റു ചില പരാമീറ്ററുകൾ ഇവയുടെ ഫങ്ക്ഷൻ ആയി എഴുതാവുന്നതാണ് അതായത് E f A parameters ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് നമ്മൾ ആക്ഷന്റെ വാല്യൂ മാറ്റുകയാണെങ്കിൽ ഓർബിറ്റ് മാറുന്നതാണ് അതായത് എനർജിയും മാറും ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഓർബിറ്റിലെ ആയിരിക്കുമെന്നുള്ളതാണ്